അവസാന ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിച്ചെടുത്തു നമ്മൾ സ്ട്രെസ് ഫീൽഡ് ക്രാക്ക് ടിപ്പിന് സമീപത്തായി കണ്ടു വെസ്റ്റർഗാർഡിന്റെ പരിഹാരം നമ്മൾ കണ്ടു വെസ്റ്റർഗാർഡ് പരിഹാരത്തിലെ ചില മാറ്റങ്ങളും നമ്മൾ കണ്ടു വെസ്റ്റർഗാർഡിന്റെ സമവാക്യങ്ങളിൽ വരുത്തിയ ഒരു പ്രധാന പരിഷ്ക്കരണമാണ് ഇർവിൻ വരുത്തിയ പരിഷ്ക്കരണം വാസ്തവത്തിൽ വെൽസിന്റെയും പോസ്റ്റിന്റെയും ഫലങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം ഒരു അധിക പദം ചേർത്തു ഇത് പ്രധാനമായും സിഗ്മ x സ്ട്രെസ് ടേം ആണ് ഒരു അളവ് മൈനസ് സിഗ്മ നോട്ട് x എന്നിരുന്നാലും അന്തിമ ലക്ഷ്യം പരീക്ഷണത്തിൽ നിന്ന് KI കണ്ടെത്തുക എന്നതാകാമെങ്കിലും സിഗ്മ നോട്ട് x KI എന്നിവ കണ്ടെത്തുന്നതിന് നിങ്ങൾ പരീക്ഷണാത്മക വിവരങ്ങൾ ഉപയോഗിക്കേണ്ടിവരും തുടർന്ന് K യുടെ മൂല്യം റിപ്പോർട്ടുചെയ്യണം K യുടെ ആ മൂല്യം മാത്രമേ പ്രതിനിധീകരിക്കുകയുള്ളൂ ഒരു പരീക്ഷണത്തിൽ കാണുന്ന യഥാർത്ഥ സ്ട്രെസ് ഫീൽഡ് ആണ് നിങ്ങൾ നോക്കേണ്ട രീതി ഇതാണ് ഈ സ്ട്രെസ് ഫീൽഡ് സമവാക്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേണുകളും നമ്മൾ കണ്ടു നമുക്ക് അവ വീണ്ടും നോക്കാം ക്രാക്ക് ആക്സിസിനൊപ്പം പരമാവധി ഷിയർ സ്ട്രെസ് ഒരു സ്ഥിരമായ മൂല്യമായി മാറുന്നുവെന്ന് നമ്മൾ കണക്കാക്കി ഇതാണ് പൊതുവായ പദപ്രയോഗം നിങ്ങൾ ഇവ പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രിഞ്ച് പാറ്റേണുകൾ ഉണ്ടായിരുന്നു നമ്മൾ അതിനെ പരീക്ഷണാത്മക ഫ്രിഞ്ച് പാറ്റേണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് നന്നായി പൊരുത്തപ്പെടുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇർവിൻ നടത്തിയ ലളിതമായ പരിഷ്ക്കരണം ഫ്രിഞ്ച്കളുടെ ചരിവ് പോലും പിടിച്ചെടുക്കാൻ നിങ്ങളെ സഹായിച്ചു ഇത് നേരെയാകുകയാണ് ഇത് ഇതുപോലെ ചരിവുള്ളതായിരുന്നു ഫ്രിഞ്ച്കളുടെ ചരിവ് ഇതുപോലെ ചായ്വുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ക്രാക്ക് ടിപ്പിനടുത്തേക്ക് പോകുമ്പോൾ ഇത് നേരെ മാറുകയാണ് അതാണ് നിങ്ങൾ ഫ്രിഞ്ച് പാറ്റേണുകളിൽ കാണുന്നത് എന്നാൽ ക്രാക്ക് ആക്സിസ് ൽ ഇത് പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ സ്ഥിരമായ ഒരു മൂല്യം മാത്രമേ നൽകിയിട്ടുള്ളൂ അതേസമയം പരീക്ഷണത്തിൽ പോലും സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് വിള്ളൽ നീളമുള്ളതോ അല്ലെങ്കിൽ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫീൽഡിൽ വിള്ളൽ സ്ഥിതി ചെയ്യുന്നതോ ആയ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രധാന വ്യത്യാസം കാണാൻ കഴിയും ഇതിനുപുറമെ ടഡ പാരീസ് ഇർവിൻ എന്നിവർ വരുത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു ഉത്ഭവം മാറ്റുന്നതും അവർ നോക്കി നമ്മൾ ഒരു ലളിതവൽക്കരണം നടത്തി നമ്മൾ ചെയ്ത രീതി ലളിതമാക്കുന്നതിനുപകരം നിങ്ങൾക്ക് ഒരു ബൈനോമിയൽ പരമ്പരയായി ഡിനോമിനേറ്റർ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരു സീരീസ് പരിഹാരം ലഭിക്കും പരീക്ഷണത്തിൽ കാണുന്നവയെ തൃപ്തിപ്പെടുത്താൻ ഇത് സഹായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇത് ക്രാക്ക് ആക്സിസ് ൽ ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥ വെസ്റ്റർഗാർഡ് സമവാക്യത്തിന് സമാനമായ ഒരു അതിർത്തിയും ഇത് പ്രവചിക്കുന്നില്ല ഈ പരിഷ്ക്കരണം നേരെയാണെങ്കിലും ഈ പരിഷ്ക്കരണം ഉപയോഗപ്രദമായിരുന്നില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് സീരീസ് നിബന്ധനകൾ ഉള്ളപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യ ടേം എടുക്കുകയാണെങ്കിൽ പരിഹാരം ഒരു നിശ്ചിത അളവിലുള്ള കൃത്യതയിൽ ആണ് ഞാൻ മറ്റ് നിരവധി പദങ്ങൾ എടുക്കുകയാണെങ്കിൽ കൃത്യത വർദ്ധിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു പൊതുവൽക്കരണം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ പരമ്പരാഗത വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ ഇപ്പോഴും നിങ്ങളുടെ പക്കലുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെസ്റ്റർഗാർഡിന്റെ അടിസ്ഥാന പരിഹാരത്തിന്റെ ചില വശങ്ങൾ പരിശോധിക്കാം അടിസ്ഥാന പരിഹാരത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒരു സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉണ്ട് R തീറ്റ എന്നിവയുടെ ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് ലോഡിംഗ് മാറ്റുമ്പോൾ K I ന്റെ മൂല്യം മാറുന്നതായി നിങ്ങൾ കണ്ടെത്തും K I ന്റെ മൂല്യം സ്ട്രെസ് ഫീൽഡിന്റെ ശക്തി നിർണ്ണയിക്കുന്നു എനിക്ക് ഒന്നിലധികം ലോഡുകൾ ഉണ്ടെന്ന് കരുതുക അത് നിങ്ങൾക്ക് ഒരു മോഡ് I സാഹചര്യം നൽകുന്നു തുടർന്ന് സൂപ്പർപോസിഷന്റെ തത്ത്വത്തിൽ നിന്ന് വ്യത്യസ്ത തരം ലോഡിംഗിനായി നിങ്ങൾക്ക് K I ചേർക്കാം R 0 ന് അടുത്തായിരിക്കുമ്പോൾ എന്തുസംഭവിക്കും മൂല്യങ്ങൾ അനന്തമായി വർദ്ധിക്കുന്നു ഒരു യഥാർത്ഥ മെറ്റീരിയലിൽ അതിന് അനന്തതയിലേക്ക് പോകാൻ കഴിയില്ല ഭൌതിക സ്വഭാവം നിർണ്ണയിക്കുന്ന ഒരു മൂല്യത്തിൽ മാത്രമേ അതിന് കഴിയൂ ഇത് തികച്ചും പ്ലാസ്റ്റിക് മെറ്റീരിയലാണെങ്കിൽ അത് യിൽഡ് ശക്തിയിൽ എത്തിയേക്കാം വർക്ക് ഹാർഡനിങ് കാരണം ഇത് വർക്ക് ഹാർഡനിങ് മെറ്റീരിയലാണെങ്കിൽ ഇത് സ്ട്രെസ് ലെവലിന്റെ മറ്റേതെങ്കിലും മൂല്യമായിരിക്കും ക്രാക്ക് ടിപ്പിൽ ഇതാണ് സംഭവിക്കുന്നത് ഈ മേഖല എത്ര ചെറുതോ വലുതോ ആണ് എന്നത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയ മറ്റൊരു വശം ഈ പരിഹാരം ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തായി സാധുതയുള്ളതാണ് കാരണം നമ്മൾ ഒരു ലളിതവൽക്കരണം നടത്തിയിട്ടുണ്ട് z നോട്ട് a യെക്കാൾ വളരെ കുറവാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്

നിങ്ങൾ ഇത് നോക്കുകയാണെന്ന് കരുതുക r അനന്തതയിൽ എത്തുമ്പോൾ സ്ട്രെസ് മൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കും അവ അടിസ്ഥാനപരമായി 0 ലേക്ക് പോകുന്നു അതിനാൽ നിങ്ങൾ സ്ട്രെസ് ഫീൽഡിനെ ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തായി പിടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇർവിൻ എന്താണ് പരിഷ്കരിച്ചത് അദ്ദേഹം ഒരു അധിക പദം ചേർത്തു പരീക്ഷണാത്മക ഫ്രിഞ്ച് പാറ്റേൺ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു K മാത്രം കണ്ടെത്താനാണ് നിങ്ങളുടെ താൽപര്യം എങ്കിലും നിങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും സിഗ്മ നോട്ട് x K I എന്നിവ കണക്കാക്കുകയും K I യുടെ ആ മൂല്യം തന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ പ്രതിനിധിയായി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ആളുകൾ ഈ വ്യാഖ്യാനത്തെ പലവിധത്തിൽ നോക്കിയിട്ടുണ്ട് മോഡ് I പ്രശ്നത്തിനായുള്ള വെസ്റ്റർഗാർഡിന്റെ സമീപനത്തിൽ നിന്നുള്ള ടെറിവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ച പരിഹാരം എന്തായാലും ഒരു ബയാസ്കിയൽ സ്ട്രെസ് ഫീൽഡ് പരിഹാരമാണ് ഇത് ഒരു ഏകീകൃത സ്ട്രെസ് ഫീൽഡ് അല്ല നിങ്ങൾ ഇർവിന്റെ പരിഷ്ക്കരണം നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഏകീകൃത സ്ട്രെസ് ഫീൽഡിനായുള്ള ഒരു പരിഷ്ക്കരണമായി കണക്കാക്കാം കാരണം ഈ മൈനസ് സിഗ്മ അനന്തതയിലേക്ക് പോകുകയും ബയാക്സിയൽ ലോഡിലെ സിഗ്മയ്ക്കൊപ്പം റദ്ദാക്കുകയും ചെയ്യും അതിനാൽ ആളുകൾ വിചാരിച്ചത് ഇർവിന്റെ പരിഷ്ക്കരണം ഒരു ഏകീകൃത കേസ് പ്രതിനിധി പരിഹാരമായി കണക്കാക്കാമെങ്കിലും മറ്റ് വാദഗതികളും ഉണ്ട് നിങ്ങൾ ശരിക്കും ക്രാക്ക് ടിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സിഗ്മ x ന്റെ മൂല്യം വളരെ ഉയർന്നതാണ് അതിനാൽ ക്രാക്ക് ടിപ്പിന് സമീപം സിഗ്മ x നു സിഗ്മ എന്തായാലും വളരെ ചെറുതായിരിക്കും അതിനാൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഏകീകൃത സ്ട്രെസ് ഫീൽഡിനായുള്ള പരിഹാരം എങ്ങനെ കാണാം നിങ്ങൾ ശരിക്കും വികസനം നോക്കുകയാണെങ്കിൽ K I എന്താണ് നമ്മൾ ഒരു ബയാക്സിയൽ ലോഡിംഗ് സാഹചര്യത്തിനായി പറഞ്ഞു സിഗ്മ റൂട്ട് പൈ a അതിനാൽ K I യുടെ മൂല്യം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കു ഒരു വിശകലന പ്രയോഗമുണ്ട് ഇപ്പോൾ ചോദ്യം ഇത് ഒരു ബയാക്സിയൽ സാഹചര്യത്തിനായി ഉരുത്തിരിഞ്ഞതാണ് എനിക്ക് ഇത് ഏകീകൃത സാഹചര്യത്തിനായി ഉപയോഗിക്കാമോ ഇത്തരത്തിലുള്ള ചോദ്യം വരുന്നു അതിനാൽ ആളുകൾ ചെയ്തത് ഫൈനൈറ്റ് ബോഡി പ്രശ്നത്തിന് ആളുകൾ അതിർത്തി പരിഹാരം വികസിപ്പിക്കുകയും എക്സ്പ്രഷൻ നേടുകയും ചെയ്തു അതിന് ഒരു ഘടകം a ബൈ w അതിനെ ബീറ്റയായി പ്രതിനിധീകരിക്കുന്നു അതിനാൽ ബീറ്റ സിഗ്മ റൂട്ട് pi a നിങ്ങൾക്ക് ഫൈനൈറ്റ് ബോഡി പ്രശ്നത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ക്രാക്ക് ടിപ്പിന് സമീപത്തായി വെസ്റ്റർഗാർഡിന്റെ അടിസ്ഥാന പരിഹാരം ഇപ്പോഴും വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് കാര്യം എന്താണ് R ക്രാക്ക് ടിപ്പിലേക്ക് അടുക്കുമ്പോൾ തീറ്റ 0 ന് തുല്യമായത് എന്ന വരിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കും അതാണ് ക്രാക്ക് ആക്സിസ് അതിനാൽ ഈ പദങ്ങൾ 0 ലേക്ക് പോകുന്നു എനിക്ക് സിഗ്മ x സിഗ്മ y എന്നിവ രണ്ടും ഈ രീതിയിലാണ് പെരുമാറുന്നത് നിങ്ങൾക്ക് വിള്ളൽ ടിപ്പിന് സമീപമുള്ള സിഗ്മ x ന് തുല്യമായ സിഗ്മ y ഉണ്ട് പിന്നീട് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം എന്താണെന്ന് നമ്മൾ കാണാൻ പോകുമ്പോൾ സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവലോകനത്തിൽ ഞാൻ ഇതിനകം ഒരു പ്രശ്നം നൽകിയിരുന്നു പ്ലെയിൻ സ്ട്രെസ് ഇൽ സിഗ്മ x ന് തുല്യമായ സിഗ്മ y ഉള്ളപ്പോൾ സ്ട്രെസ് തോത് കണ്ടെത്തുക അത് ക്രാക്ക് ടിപ്പിന് സമീപം സംഭവിക്കുന്നതിൽ നിന്നാണ് വെസ്റ്റർഗാർഡ് പരിഹാരം നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപം നൽകുന്നു ക്രാക്ക് ടിപ്പുകളിൽ സിഗ്മ x സിഗ്മ y എന്നിവ രണ്ടും ഇതുപോലെയാണ് അവ അനന്തമായി വർദ്ധിക്കുകയും നിങ്ങൾ x ദിശയിലൂടെ പോകുമ്പോൾ പൂജ്യത്തിലേക്ക് പോകുകയും ചെയ്യുന്നു എന്നാൽ വിള്ളലിന് എന്താണ് സംഭവിക്കുക മൂർച്ചയില്ലാത്ത ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സ്ട്രെസ് ഫീൽഡ് ക്രെജർ പാരീസ് ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാവില്ല ഒരു യഥാർത്ഥ മെറ്റീരിയൽ ക്രാക്ക് ടിപ്പ് മൂർച്ഛിക്കും അതിനാൽ ആളുകൾ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് പരിഹാരത്തിലേക്ക് നോക്കി 1967 ൽ ക്രിയേജറും പാരീസൂം നിങ്ങൾക്ക് മൂർച്ചയുള്ള ഒരു വിള്ളൽ ലഭിക്കുമ്പോൾ സ്ട്രെസ് ഫീൽഡ് കണ്ടെത്താൻ ശ്രമിച്ചു പരിഹാരം എങ്ങനെ മാറും നിങ്ങൾക്ക് പരിഹാരത്തിന്റെ ഈ വെസ്റ്റർഗാർഡ് ഭാഗം കൂടാതെ K I ബൈ റൂട്ട് 2 പൈ r റോ ബൈ 2 r ഗുണം മൈനസ് കോസ് 3 തീറ്റ ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 മൈനസ് സൈൻ തീറ്റ ബൈ 2 രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുമ്പത്തെ കേസിൽ ക്രാക്ക് ടിപ്പ് വളരെ മൂർച്ചയുള്ളതായിരുന്നു രണ്ടാമത്തെ കേസിൽ ക്രാക്ക് ടിപ്പ് മൂർച്ച ഇല്ലാത്തതാണ് അതിനാൽ ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളപ്പോൾസിഗ്മ എക്സ് സ്ട്രെസ് ഘടകത്തിന് എന്ത് സംഭവിക്കും ഇത് 0 ലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഇത് ഒരു സ്വതന്ത്ര ഉപരിതലമായി മാറുന്നു ഇത് മൂർച്ചയുള്ള പോയിന്റായിരിക്കുമ്പോൾ കഥ വ്യത്യസ്തമാണ് നിങ്ങൾ ക്രിയേജർ പരിഹാരം നോക്കുമ്പോൾ അവർ ഇത് ഒരു റൂട്ട് റേഡിയസ് റോ ആയി കണക്കാക്കുന്നു എന്നതാണ് കൂടാതെ ക്രാക്ക് ടിപ്പ് വിള്ളലിന്റെ അരികിൽ നിന്ന് റോ ബൈ 2 ദൂരെ ആയി കണക്കാക്കുന്നു ഇങ്ങനെയാണ് അളവുകൾ നടത്തുന്നത്

അതിനാൽ ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ഞാൻ റോ ബൈ 2 മൂല്യം പകരം വയ്ക്കണം അതിനാൽ തീറ്റ മൂല്യം 0 വും r റോ ബൈ 2 ആയി പകരം വയ്ക്കുമ്പോൾ നിങ്ങളുടെ സാമാന്യബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പരിഹാരം ലഭിക്കും സിഗ്മ x 0 ന് തുല്യമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ സിഗ്മ y ഒരു പരിമിത മൂല്യമായി മാറുന്നു ഇത് ഇനി അനന്തമല്ല വിള്ളലുകൾ വളരെ അപകടകരമാണെന്ന് ഇംഗ്ലിസ് ചൂണ്ടിക്കാണിച്ചതുമുതൽ ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ നിരവധി ശാസ്ത്രജ്ഞർ സംഭാവന നൽകിയിട്ടുണ്ട് അതിനാൽ ക്രിയേജറിന്റെ പരിഹാരം തികച്ചും ഉപയോഗപ്രദമാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇത് മൂർച്ചയുള്ളത് അല്ലെന്നും റൂട്ട് റേഡിയസ് rho എടുക്കുന്നതിലൂടെ ഈ മൂർച്ച കണക്കാക്കപ്പെടുന്നു നിങ്ങൾ സ്ട്രെസ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെയാകും നിങ്ങൾക്ക് ഇവിടെ മൂർച്ചയില്ലാത്ത ക്രാക്ക് ടിപ്പ് ഉണ്ട് മൂർച്ചയുള്ളതായി കാണിക്കുന്നു എന്നാൽ ഇത് ഒരു മൂർച്ചയില്ലാത്ത ക്രാക്ക് ടിപ്പ് ആണെന്ന് സങ്കൽപ്പിക്കുക എനിക്ക് ഇതുപോലെ സിഗ്മ x ന്റെ ചില വ്യത്യാസങ്ങളുണ്ട് ക്രാക്ക് ടിപ്പിൽ ഇത് 0 ആണ് സിഗ്മ y സിഗ്മ x എന്നിവ വ്യത്യസ്തമാണ് സിഗ്മ x ഒരു ചെറിയ അകലത്തിൽ പരമാവധി മൂല്യത്തിലെത്തുന്നു ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്രിയേജർ പരിഹാരമാണ് അതിനാൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂർച്ചയില്ലാത്ത ക്രാക്ക് ടിപ്പിൽ സിഗ്മ x മൂല്യം 0 ലഭിക്കുന്നുവെന്നതും സിഗ്മ x അല്പം ദൂരത്തിൽ പരമാവധി എത്തുന്നതുമാണ് നിങ്ങളുടെ സിഗ്മ y മൂല്യം അനന്തമല്ല പക്ഷേ ഇത് വളരെ വലുതാണ് പക്ഷേ ഇത് ഒരു പരിമിത മൂല്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ പോയി ഡിസ്പ്ലേമെൻറ് ഫീൽഡ് കണ്ടെത്തും നമ്മൾ ഇപ്പോഴും വെസ്റ്റർഗാർഡ് പരിഹാരം തന്നെ ഉപയോഗിക്കും വെസ്റ്റർഗാർഡ് രീതിയിൽ നിന്നും ഒരു ഏകീകൃത ലോഡിംഗ് സാഹചര്യത്തിനായി നിങ്ങൾക്ക് ഇത് നേടാൻ കഴിഞ്ഞേക്കില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാന പരിഹാരം ക്രാക്ക് ടിപ്പ് സ്വഭാവത്തെ നന്നായി പ്രതിനിധീകരിക്കുന്നതിന് പര്യാപ്തമാണ് എന്ന് നമ്മൾ കണ്ടു പ്ലെയിൻ സ്ട്രെയിൻ പ്ലെയിൻ സ്ട്രെസ് എന്നിവയുടെ ഡിസ്പ്ലേമെൻറ് ഫീൽഡ് സ്ട്രെസ് ഫംഗ്ഷനുകളുടെ രൂപത്തിൽ കൂടാതെ പോളർ കോർഡിനേറ്റുകളുടെ ടേമിൽ അതിനാൽ നമ്മൾ ഡിസ്പ്ലേമെൻറ് ഫീൽഡ്ലേക്ക് പോകുന്നു ഇവിടെ വീണ്ടും നമ്മൾ സ്ട്രെസ് ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി അത് വികസിപ്പിക്കും ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ മോഡ് I ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ വെസ്റ്റർഗാർഡ് നൽകിയ സ്ട്രെസ് ഫംഗ്ഷനെ ക്യാപിറ്റൽ Z 1 Z 1 പ്രൈം എന്നിങ്ങനെ പ്രതിനിധീകരിക്കുന്നു മുമ്പത്തെ ചർച്ചയിൽ നമ്മൾ ഇത് ക്യാപിറ്റൽ Z ആയി എടുത്തിരുന്നു കാരണം വെസ്റ്റർഗാർഡ് ആ അടിസ്ഥാന പരിഹാരം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് നേടുന്നതിന് ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ മോഡ് I മോഡ് II മോഡ് III എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പ്രസക്തമായ വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനെ വേർതിരിച്ചറിയാൻ നമ്മൾ അവയെ Z 1 Z 2 Z 3 ആയി പ്രതിനിധീകരിക്കും അതിനാൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ Z 1 ഉണ്ട് ഈ രീതിയിൽ Z 1 എടുക്കുന്നതിലൂടെ എന്താണ് പ്രയോജനം റഫറൻസ് അക്ഷം ക്രാക്ക് ടിപ്പിന്റെ കേന്ദ്രമായിരിക്കും റഫറൻസ് അക്ഷത്തിന്റെ ഉത്ഭവം ക്രാക്ക് ടിപ്പിന്റെ കേന്ദ്രമായിരിക്കും ഞാൻ Z പരിഷ്ക്കരിക്കുകയാണെങ്കിൽ ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനാകും നിങ്ങൾക്കറിയാമോ വാസ്തവത്തിൽ എനിക്ക് ഡിസ്പ്ലേമെൻറ് ഫീൽഡ് ലഭിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ക്രാക്ക് സെൻറർ ഉത്ഭവമായും ക്രാക്ക് ടിപ്പ് ഉറവിടമായും ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിലെ ആശയങ്ങൾ മനസിലാക്കാൻ ഞാൻ അവ ഉചിതമായ രീതിയിൽ ഉപയോഗിക്കും തന്നിരിക്കുന്ന ലോഡിംഗിൽ വിള്ളൽ എങ്ങനെ തുറക്കുന്നു എന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ക്രാക്ക് സെന്റർ ഉപയോഗിച്ച് ഡിസ്പ്ലേമെൻറ് ഫീൽഡ് കണ്ടെത്തുന്നത് ഉപയോഗപ്രദമാണ് കൂടാതെ പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ എന്നിവയ്ക്കും നമ്മൾ വികസിപ്പിക്കും അതിനാൽ ഒരു സ്ട്രെസ് ഫോർമുലേഷന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം സ്ട്രെസ് ലഭിക്കുന്നു സ്ട്രെസ്ൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ ലഭിക്കും പ്ലെയിൻ സ്ട്രെസ്നായുള്ള സ്ട്രെസ് സ്ട്രെയിൻ ബന്ധം ഇനിപ്പറയുന്ന രീതിയിൽ നൽകിയിരിക്കുന്നു ഉചിതമായ സ്ട്രെസ് അളവുകൾ നൽകുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം

അതിനാൽ എപ്സിലോൺ x x 1 ബൈ സിഗ്മ x x മൈനസ് ന്യൂ സിഗ്മ yy അതുപോലെ നിങ്ങൾക്ക് എപ്സിലോൺ y y എപ്സിലോൺ x y എന്നിവയ്ക്കും എഴുതാം അതിനാൽ സ്ട്രെസ് ഫോർമുലേഷന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം സ്ട്രെസ് ലഭിക്കുന്നു സ്ട്രെസ് സ്ട്രെയിൻ ബന്ധം ഉപയോഗിച്ച് സ്ട്രെയിൻ വിലയിരുത്തുക ഈ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ സ്ട്രെയിനിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തേണ്ടി വരും സോളിഡ് മെക്കാനിക്സിൽ നിന്ന് നമുക്കറിയാം എപ്സിലോൺ xx എന്നത് dou u ബൈ dou x ആണ് എപ്സിലോൺ yy എന്നത് dou v ബൈ dou y ആണ് നിങ്ങളുടെ എപ്സിലോൺ x y എന്നത് dou u ബൈ dou y പ്ലസ് dou v ബൈ dou x എന്നതിൻറെ പകുതിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് സ്ട്രെസ് സ്ട്രെയിൻ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ സ്ട്രെയിൻ അളവുകൾ എഴുതിയിട്ടുണ്ട് അതിനാൽ എപ്സിലോൺ x x എന്നത് 1 ബൈ യങ്ങ്സ് മോഡുലസ് ഗുണം Z 1 ൻറെ റിയൽ ഭാഗം മൈനസ് y ഗുണം Z 1 പ്രൈം സാങ്കൽപ്പിക ഭാഗം മൈനസ് ന്യൂ ഗുണം Z 1 പ്രൈം റിയൽ ഭാഗം മൈനസ് ന്യൂ ഗുണം ഇസഡ് 1 ന്റെ യഥാർത്ഥ ഭാഗം പ്ലസ് y ഗുണം Z 1 പ്രൈമിന്റെ സാങ്കൽപിക ഭാഗമാണ് എപ്സിലോൺ y y വളരെ സമാനമാണ് ഇവിടെ ചിഹ്നത്തിൽ ഒരു മാറ്റമുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന പദപ്രയോഗങ്ങൾ വളരെ സാമ്യമുള്ളതായി തോന്നുന്നു എനിക്ക് ഈ ഷിയർ സ്ട്രെസ് ഉണ്ട് അതിൽ നമ്മൾ G യുടെ മൂല്യം ഈ രീതിയിൽ മാറ്റിസ്ഥാപിച്ചു നമുക്കറിയാം E എന്നത് 2 G ഗുണം 1 പ്ലസ് ന്യൂ ആണ് അതിനാൽ അത് മാറ്റിസ്ഥാപിക്കുകയും നമ്മൾ ഇവിടെ E യുടെ അടിസ്ഥാനത്തിൽ എഴുതുകയും ചെയ്തു മൈനസ് 1 1 പ്ലസ് ന്യൂ Y ബൈ യങ്ങിസ് മോഡുലസ് y Z 1 പ്രൈമിന്റെ റിയൽ ഭാഗം

സ്ട്രെയിൻ ഇൽ നിന്ന് ഡിസ്പ്ലേമെൻറ് കണ്ടെത്തുന്നത് ലളിതമായ ഒരു ജോലിയല്ലെന്ന് കാണുക നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എനിക്ക് dou u ബൈ dou x ഉം dou v ബൈ dou y ഉം മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റ് പരസ്പര ബന്ധമില്ല നേരിട്ട് ചെയ്യാം എനിക്ക് എക്സ്പ്രഷൻ ഒന്ന് എക്സ്പ്രഷൻ രണ്ട് എന്നിവ നേരിട്ട് സംയോജിപ്പിക്കാൻ കഴിയും ഇത് ആണ് ഡിസ്പ്ലേമെൻറ് ഫീൽഡ്

എനിക്ക് ഇവിടെയുള്ളത് dou u ബൈ dou x എന്ന ഒരു എക്സ്പ്രഷൻ ആണ് dou v ബൈ dou y എന്നതിന് എനിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട് കൂടാതെ എനിക്കു അവയ്ക്കിടയിൽ ഒരു എക്സ്പ്രഷൻ ബന്ധമുണ്ട് dou uബൈ dou y പ്ലസ് dou v ബൈ dou x ഇത് എപ്സിലോൺ x y ആയി നൽകിയിരിക്കുന്നു അതിനാൽ uv എന്നിവയ്ക്കുള്ള പരിഹാരം എന്തുതന്നെയായാലും നിങ്ങളുടെ ഗണിതശാസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ സമവാക്യവും തൃപ്തികരമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്ഇത് യങ്ങ്സ് മോഡുലസായി നിലനിർത്തുന്നതിനുപകരംG യുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് മാറ്റിസ്ഥാപിക്കും അതാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഘടകങ്ങളെ ഗ്രൂപ്പുചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ഇവിടെ dou u ബൈ dou x എന്നത് 1ബൈ 2 G ഗുണം 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ ഗുണം Z 1 പ്രൈമിന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 സാങ്കൽപ്പിക ഭാഗം ആണ് അപ്പോൾ നിങ്ങൾക്ക് dou v ബൈ dou y എന്നതിന് പദപ്രയോഗമുണ്ട് അതിനാൽ ഇവയെ ശ്രദ്ധാപൂർവ്വം ഗ്രൂപ്പുചെയ്തതിനാൽ നിങ്ങൾക്ക് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ നിബന്ധനകൾ ഒരുമിച്ച് ഗ്രൂപ്പുചെയ്യാനാകും എനിക്ക് 1ബൈ 2 G ഗുണം 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ ഗുണം Z 1 ന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം ആണ് നമ്മൾ ഇത് ഇപ്പോഴും Z 1 ആയി നിലനിർത്തുകയും കണക്കുകൂട്ടൽ തുടരുകയും ചെയ്യും അവസാനമായി ക്രാക്ക് ടിപ്പ് ഉൽഭവം ആക്കി ഉപയോഗിച്ച് ഒരു കൂട്ടം പരിഹാരം നമ്മൾ നോക്കും ക്രാക്ക് സെൻറർ ഉൽഭവം ആക്കി മറ്റൊരു കൂട്ടം പരിഹാരം നമ്മൾ നോക്കും R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്പ്രഷനുകൾ ലഭിക്കും അവ ക്യാപിറ്റൽ Z ആയി തന്നെ നമ്മൾ സൂക്ഷിക്കും അതിനാൽ ഇൻറഗ്രേഷൻ ചെയ്യുമ്പോൾ u v എന്നിവയ്ക്കുള്ള പദപ്രയോഗം ഇതുപോലെ മാറുന്നു ഇവ ദൈർഘ്യമേറിയ പദപ്രയോഗങ്ങളാണ് അവ എഴുതാൻ കുറച്ച് സമയമെടുക്കുക അതിനാൽ എനിക്ക് 1ബൈ 2 G ഗുണം 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ ഗുണം Z 1 ബാർ ഇൻറെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 സാങ്കൽപ്പിക ഭാഗം ആണ് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ചേർത്തു ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് dou u ബൈ dou x എന്ന പദത്തിന്റെ പ്രയോഗം നമുക്കുണ്ട് അതിനാൽ എനിക്ക് അതിന്റെ ഇൻറഗ്രേഷൻ ലഭിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻറഗ്രേഷൻ കോൺസ്റ്റൻസ് ഉണ്ടാകും ആ ഇൻറഗ്രേഷൻ കോൺസ്റ്റൻസ് യഥാർത്ഥത്തിൽ y യുടെ ഒരു പ്രവർത്തനമാണ് X മായി ബന്ധപ്പെട്ട സംയോജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കോൺസ്റ്റൻസ് പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ dou v ബൈ dou y ഇൻറഗ്രേഷൻ ചെയ്യുമ്പോൾ x ന്റെ പ്രവർത്തനമായി എനിക്ക് ഒരു ഇൻറഗ്രേഷൻ കോൺസ്റ്റൻസ് ലഭിക്കും അതിനാൽ എനിക്ക് v എന്നത് 1 ബൈ 2 G ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ ഗുണം Z1 ബാർ ന്റെ സാങ്കല്പിക ഭാഗം മൈനസ് y ഗുണം Z1 റിയൽ ഭാഗമാണ് അതിനാൽ y നെ സംബന്ധിച്ച് ഞാൻ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫംഗ്ഷനുകളിൽ ഒരു ഫ്ലിപ്പ് ഓവറും ചിഹ്ന മാറ്റവും ഉണ്ട് ഇത് നിങ്ങൾ കോച്ചി റിമാൻ അവസ്ഥ നോക്കുകയും നിങ്ങളുടെ ധാരണ വ്യക്തമാക്കുകയും വേണം അതിനാൽ f y g x എന്നിവ എന്താണെന്ന് വിലയിരുത്തിയാൽ മാത്രമേ u v എന്നിവയുടെ പരിഹാരം പൂർത്തിയാകൂ ഇവ രണ്ടും എനിക്കറിയാമെങ്കിൽ എനിക്ക് u v എന്നിവയ്ക്കുള്ള പദപ്രയോഗം ലഭിക്കും

അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് f y യുടെ മാത്രം ഫംഗ്ഷൻ ആകാവുന്ന ഇൻറഗ്രേഷൻ കോൺസ്റ്റൻസ് ആണ് അതുപോലെ g എന്നത് x ന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ് ഫ്രാക്ചർ പ്രശ്നങ്ങൾക്ക് ഫംഗ്ഷൻ y g ഓഫ് x എന്നിവ പ്രവർത്തനം സാമാന്യത നഷ്ടപ്പെടാതെ 0 ന് തുല്യമാക്കാമെന്ന് ഞാൻ ഒരു പ്രസ്താവന നടത്തി അത് നമ്മുടെ പ്രവർത്തനം എളുപ്പമാക്കുന്നു എന്നാൽ നമ്മൾ എന്തുചെയ്യും എന്നതാണ് നമ്മൾ ശരിക്കും പോയി അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് കണ്ടെത്തും അതിനാൽ ഈ പദപ്രയോഗത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കേണ്ടതുണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ് തമ്മിൽ പരസ്പരബന്ധം കാണിക്കുന്ന എപ്സിലോൺ x y രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതിനാൽ ഞാൻ dou u ബൈ dou y പ്ലസ് dou v ബൈ dov x ന്റെ പകുതി വിലയിരുത്തേണ്ടതുണ്ട് ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ൻറെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനകം തന്നെ uv എന്നിവയ്ക്കുള്ള പദപ്രയോഗം ലഭിച്ചു ഇത് യഥാർത്ഥത്തിൽ y യുടെ ഫങ്ഷൻ g എന്നിവയുടെ ഫംഗ്ഷനുകളാണ് ഞാൻ അത് വിശദമായി ചെയ്യുന്നില്ല അതിനാൽ നിങ്ങൾ പിന്നീട് പരിശോധിക്കുക അതിനാൽ ഞാൻ അത് ചെയ്യുമ്പോൾ ഇത് 0 ന് തുല്യമാണ് അതിനാൽ ഇത് നിങ്ങൾ പുനസ്ഥാപിക്കണം തുടർന്ന് നിങ്ങളുടെ മുറികളിൽ ഇത് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ dou f ബൈ dou y പ്ലസ് dou g ബൈ dou x പൂജ്യത്തിനു തുല്യമാണ് ഇവിടെ പുനസ്ഥാപിക്കുമ്പോൾ ലഭിക്കുന്നത് ഇതാണ് ഇതിനെ ഇതിന് മറ്റൊരു രീതിയിൽ എഴുതാം dou f ബൈ dou y എന്നത് മൈനസ് dou g ബൈ dou x ആണ് ഇത് തുല്യമാണ് ഇതിന്റെ സ്വാധീനം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും ഞാൻ തിരികെ പോയി ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് മാറ്റി സ്ഥാപിച്ചാൽ എന്ത് സംഭവിക്കും

അതിനാൽ ഞാൻ ഇത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എനിക്ക് f Ay പ്ലസ് Bക്ക് തുല്യവും g മൈനസ് Ax പ്ലസ് C ക്ക് തുല്യവുമാണ് ഇവ കോൺസ്റ്റൻസ് ആണ് അവ ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ആണ് അതിനാൽ f g എന്താണെന്ന് എനിക്കറിയാം അതിനാൽഎക്സ്പ്രഷൻ ഇൽ u v അല്ലെങ്കിൽ u x u y എന്നിവ പുനസ്ഥാപിക്കുബോൾ എന്ത് ലഭിക്കുമെന്ന് നിങ്ങൾ ഒരു എക്സസൈസ് ആയി ചെയ്യുക എനിക്ക് u x കോൺസ്റ്റൻസ് B യും u y മറ്റൊരു കോൺസ്റ്റൻസ് C ആയി ലഭിക്കുന്നു സാമാന്യത നഷ്ടപ്പെടാതെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പരിഹാരത്തെ ബാധിക്കില്ല ഇവ 0 ആയി സജ്ജമാക്കും നിങ്ങളുടെ സാധാരണ ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിൽ നിങ്ങൾക്കറിയാം സ്ട്രെസ് ഫോർമുലേഷനെ അടിസ്ഥാനമാക്കി നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ മുന്നോട്ട് പോയി സ്ട്രെയിനും ഡിസ്പ്ലേസ്മെൻറ് ഉം കണ്ടുപിടിക്കാൻ സാധിക്കു നിങ്ങൾ അത്തരം പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും അത് സമാനമാണ്

റൊട്ടേഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കുന്നു റൊട്ടേഷന് ഒമേഗ എന്ന ചിഹ്നം നൽകിയിരിക്കുന്നു ഇത് dou u ബൈ dou y മൈനസ് dou v ബൈ dou x ൻറെ പകുതിയും ആണ് അതിനാൽ റിജിഡ് ബോഡി റൊട്ടേഷനായി fg ഫംഗ്ഷന്റെ സംഭാവനയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് ഒമേഗ എന്നത് A പ്ലസ് A യുടെ പകുതിയ്ക്ക് തുല്യമാണ് അത് കോൺസ്റ്റൻസ് A ആയി ചുരുങ്ങുന്നു A എന്നത് ഘടകത്തിന്റെ റിജിഡ് ബോഡി റൊട്ടേഷൻ ആണ് അതിനെ 0 ആയി സജ്ജീകരിക്കാം അതിനാൽ നമ്മൾ നോക്കിയത് അതനുസരിച്ച് നിങ്ങൾ dou u ബൈ dou x ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എനിക്ക് y യുടെ ഒരു ഫംഗ്ഷനായി ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ലഭിക്കും dou v ബൈ dou y ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എനിക്ക് x ൻറെ ഒരു ഫംഗ്ഷനായി ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ലഭിക്കും അതാണ് g x പൊതു സ്വഭാവം നഷ്ടപ്പെടാതെ വിശദമായ വിശകലനത്തിലൂടെ അവ റിജിഡ് ബോഡി ട്രാൻസ്ലേഷനും റൊട്ടേഷനും മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്ന് ഇത് കാണിക്കുന്നു നമുക്ക് അവയെ 0 ആക്കാം

ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് ഒടുവിൽ ഈ രീതിയിൽ ലഭിക്കുന്നു നിങ്ങൾക്ക് u എന്നത് 1ബൈ 2 G ഗുണം 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ ഗുണം Z 1 ബാർ ഇൻറെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 സാങ്കൽപ്പിക ഭാഗം ആണ് കൂടാതെ v എന്നത് 1ബൈ 2 G ഗുണം2 ബൈ 1 പ്ലസ് ന്യൂ Z 1 ബാർ ഇൻറെ സാങ്കല്പിക ഭാഗം മൈനസ് y ഗുണം Z 1 റിയൽ ഭാഗം ആണ് ഡിസ്പ്ലേമെൻറ് ഫീൽഡ് ഫീൽഡ് ക്രാക്ക് സെൻറർ ഉത്ഭവമായും ക്രാക്ക് ടിപ്പു ഉത്ഭവമായും ലഭിക്കുക എന്നതാണ് നമ്മുടെ താൽപ്പര്യം അതിനാൽ ക്രാക്ക് സെൻറർ ഉത്ഭവസ്ഥാനമായി സ്ട്രെസ് ഫംഗ്ഷൻ Z 1 ഉപയോഗിക്കുക അത് സിഗ്മ z ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ ആണ് ക്രാക്ക് ടിപ്പ ഉറവിടമായിസ്ട്രെസ് ഫംഗ്ഷൻ Z 1 എന്നത് K I ബൈ റൂട്ട് 2 pi z നോട്ട് ആകും ഇത് ഞാൻ ഊന്നി കാരണം നിങ്ങൾ ഒരു പുസ്തകം എടുക്കുമ്പോൾ അവ ഒരു പദപ്രയോഗം നൽകുന്നു ആ പദപ്രയോഗങ്ങൾ ക്രാക്ക് സെന്ററുമായോ ക്രാക്ക് ടിപ്പുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് കൂടാതെ ഇത് പ്ലെയിൻ സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിനും ആയി ബന്ധപ്പെട്ടതാണോ എന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിൽ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തുന്നതിലേക്ക് പോകാം സ്ട്രെസ് സ്ട്രെയിൻ ബന്ധങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവ സൌകര്യത്തിനായി ഇവിടെ എഴുതിയിരിക്കുന്നു എപ്സിലോൺ xx എന്നത് 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ യങ്ങ്സ് മോഡുലസ് E ഗുണം സിഗ്മ xx മൈനസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ സിഗ്മ yy ആണ് എപ്സിലോൺ y y എന്നത് 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ യങ്ങ്സ് മോഡുലസ് E ഗുണം സിഗ്മ y y മൈനസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ സിഗ്മ x x ആണ് നിങ്ങൾ ഈ രണ്ട് പദപ്രയോഗങ്ങളും ശരിക്കും നോക്കുകയാണെങ്കിൽ യങ്ങ്സ് മോഡുലസ് പോയസൺ അനുപാതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്ലെയിൻ സ്ട്രെസ് കേസിൽ നിന്ന് നിങ്ങൾക്ക് അവ നേടാനാകുമോ വാസ്തവത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും നിങ്ങൾ ആ പദപ്രയോഗം നോക്കുകയാണെങ്കിൽ യങ്ങ്സ് മോഡുലസിനുപകരം നിങ്ങൾ അതിനെ E ബൈ 1 മൈനസ് ന്യൂ സ്ക്വയർ ആയി എടുക്കുന്നു പോയിസൺ അനുപാതം ന്യൂ എന്നതിനുപകരം നിങ്ങൾ അതിനെ ന്യൂ ബൈ 1 മൈനസ് ന്യൂ ആക്കി നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെസ്സ് ബൈ പ്ലെയിൻ സ്ട്രെയിൻ ലഭിക്കും പുസ്തകങ്ങളിൽ ഇടം ലാഭിക്കാൻ നിങ്ങൾക്കറിയാം അവർ ഒരു പദപ്രയോഗം നൽകുകയും ഈ രീതിയിൽ പകരം വയ്ക്കുകയും പ്ലെയിൻ സ്ട്രെസ്സ് നേടുകയും ചെയ്യാം ഇലാസ്റ്റിസിറ്റി പുസ്തകങ്ങളിൽ ഇത് വളരെ സാധാരണമാണ് നിങ്ങളുടെ എപ്സിലോൺ x y യെ 1 പ്ലസ് ന്യൂ ബൈ യങ്ങ്സ് മോഡുലസ് ഗുണം tau x y ആണ് അതിനാൽ അടിസ്ഥാന സമവാക്യത്തിൽ എനിക്ക് ഈ സ്ട്രെസ്സ് ഘടകങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയും

വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട സ്ട്രെയിൻ എനിക്ക് ഇനിപ്പറയുന്ന രീതിയിൽ ലഭിക്കുന്നു ഇത് വളരെ നീണ്ടതാണ് ഇത് എഴുതാൻ കുറച്ച് സമയമെടുക്കുക അതിനാൽ എനിക്ക് എപ്സിലോൺ x x 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ യങ്ങ്സ് മോഡുലസ് ഗുണം Z 1 ന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം മൈനസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ Z1 റിയൽ ഭാഗം പ്ലസ് y ഗുണ Z 1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം ആണ് എപ്സിലോൺ yy എന്താണെന്നും നോക്കുന്നു 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ യങ്ങ്സ് മോഡുലസ് ഗുണം Z 1 ന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം Z 1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം മൈനസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ Z1 റിയൽ ഭാഗം അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് Z 1 Z 1 പ്രൈം എന്നിവ ഉൾപ്പെടുന്ന പദങ്ങൾ നമ്മൾ ഗ്രൂപ്പുചെയ്യുകയും പദപ്രയോഗങ്ങൾ നേടുകയും ചെയ്യും കാരണം ഇത് പിന്നീട് നമ്മുടെ പ്രശ്നത്തെ ലളിതമാക്കും

അതിനാൽ dou u x ബൈ dou x എന്നത് 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ യംഗ്സ് മോഡുലസ് 1 മൈനസ് നു ബൈ 1 മൈനസ് ന്യൂ ഗുണം Z1 റിയൽ ഭാഗം മൈനസ് 1 പ്ലസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ y ഗുണം Z1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം ആണ് എപ്സിലോൺ y y dou u y ബൈ dou y 1 മൈനസ് ന്യൂ സ്ക്വയർ ബൈ E ഗുണം 1 മൈനസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ Z 1 ന്റെ റിയൽ ഭാഗം പ്ലസ് 1 പ്ലസ് ന്യൂ ബൈ 1 മൈനസ് ന്യൂ y ഗുണം Z1 പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം എന്ന് ലഭിക്കും പദപ്രയോഗങ്ങൾ നീളമുള്ളതായി കാണുക നിങ്ങൾ ഓർമ്മിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം വാസ്തവത്തിൽ നിങ്ങളുടെ പരിശോധനയ്ക്കായി ഒരു A4 ഷീറ്റിന്റെ രണ്ട് വശങ്ങൾ ഞാൻ നിങ്ങളെ അനുവദിക്കും അവിടെ പ്രസക്തമെന്ന് നിങ്ങൾ കരുതുന്ന സൂത്രവാക്യങ്ങൾ എഴുതിക്കൊണ്ടു വരണം കാരണം ഇതുപോലുള്ള ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ദൈർഘ്യമേറിയ പദപ്രയോഗങ്ങൾ നേരിടേണ്ടിവരും മറ്റ് വഴികളൊന്നുമില്ല ഇത് നിങ്ങളുടെ ഓർമ്മയുടെ ഒരു പരീക്ഷണമല്ല പക്ഷേ നിങ്ങൾക്കത് ആവശ്യമാണ് ഈ സമവാക്യങ്ങൾ ക്രാക്ക് ടിപ്പ് അല്ലെങ്കിൽ ക്രാക്ക് സെന്ററുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ഞാൻ ഊന്നി പറയുന്നു ആ കുറിപ്പുകളും ഉചിതമായി നിർമ്മിക്കുക നിങ്ങളുടെ കുറിപ്പുകളിൽ സംഗ്രഹിച്ച ഒരു നല്ല സമവാക്യം നിങ്ങൾക്ക് ലഭിക്കും പ്ലെയിൻ സ്ട്രസ് സാഹചര്യം വികസിപ്പിക്കുമ്പോൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് പൂജ്യത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നമ്മൾ പരിശോധിച്ചു അതിനാൽ നമ്മൾ ആ ധാരണ പ്രയോജനപ്പെടുത്തുന്നു ഞാൻ സ്ട്രെയിനുകൾക്കായുള്ള എക്സ്പ്രഷനുകൾ ഇന്റഗ്രേഷൻ ചെയ്യുകയും ഡിസ്പ്ലേസ്മെൻറ് 1 ബൈ 2 G ഗുണം 1 മൈനസ് 2 ന്യൂ ഗുണം Z1 ബാറിൻറ് റിയൽ ഭാഗം മൈനസ് y ഗുണം Z1 സാങ്കല്പിക ഭാഗം എന്ന് ലഭിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്ലെയിൻ സ്ട്രെസ് എക്സ്പ്രഷനിലേക്ക് u ലേക്ക് പോകാമോ നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെസ് എക്സ്പ്രഷൻ u ന് പ്ലെയിൻ സ്ട്രെയിൻ എക്സ്പ്രഷൻ നേടാമോ പോയസൺ അനുപാതത്തിൽ ഞാൻ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്ലെയിൻ സ്ട്രെസ് സമവാക്യത്തിൽ ഞാൻ ന്യൂയെ 1 മൈനസ് ന്യൂ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സമവാക്യം പ്ലെയിൻ സ്ട്രെയിൻ ലഭിക്കും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ് ഘടകമായ v 1 ബൈ 2 G ഗുണം 2 1 മൈനസ് ന്യൂ ഗുണം Z 1 ബാർ സാങ്കൽപ്പിക ഭാഗം മൈനസ് y Z 1 ന്റെ റിയൽ ഭാഗം ഉണ്ട് എക്സ്പ്രഷനുകൾ ഇപ്പോഴും സ്ട്രെസ് ഫംഗ്ഷന്റെ കാര്യത്തിലായതിനാൽ ഇവിടെ വീണ്ടും ഊന്നി പറയുന്നു ഒരു സ്കെച്ച് ഉണ്ടാക്കുക ഇത് വളരെ നല്ല വിശദീകരണമാണെങ്കിലും നിങ്ങൾ ക്രാക്ക് ടിപ്പ് ഉത്ഭവമായി എടുക്കുന്നു പ്രസക്തമായ സ്ട്രെസ് ഫംഗ്ഷൻ Z1 എന്നത് K I ബൈ റൂട്ട് 2 pi z നോട്ട് ആയി നൽകുന്നു ഇവിടെ നിങ്ങൾക്ക് ക്രാക്ക് സെന്റർ ഉത്ഭവം എന്നും Z 1 എന്നത് സിഗ്മ z ബൈ z റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ ആണ് അതിനാൽ ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എനിക്ക് കേന്ദ്രവുമായി ബന്ധപ്പെടാൻ കഴിയും അതിനാൽ പ്രധാനമായും എനിക്ക് r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ എന്താണ് Z 1 എന്താണ് Z 1 ബാർ എന്ന് എനിക്ക് അറിയേണ്ടി വരും ഇതാണ് ഞാൻ അറിയേണ്ടത് ഇത് നിങ്ങളുടെ കുറിപ്പുകൾ സ്ഥിരീകരിക്കുന്നതിനാണ് എല്ലാം ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു

ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെസിനും പ്ലെയിൻ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡിനുമുള്ള എക്സ്പ്രഷൻ ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ടൈപ്പോഗ്രാഫിക്കൽ പിശകുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിക്കുമ്പോൾ അവ പരിശോധിച്ച് ശരിയാക്കുക ഇപ്പോൾ നോക്കൂ ഞാൻ ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന് യോഗ്യത നേടാൻ പോകുന്നു കാരണം ഞാൻ സ്ട്രെസ് ഫംഗ്ഷൻ Z 1 നെ K I ബൈ റൂട്ട് 2 pi z നോട്ട് ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ ഇത് കൊണ്ടുവന്ന നിമിഷം നിങ്ങൾ മനസ്സിലാക്കണം ഇത് വളരെ അടുത്തുള്ള ടിപ്പ് ഫീൽഡ് സമവാക്യമാണ് ഈ സാഹചര്യത്തിൽ അത് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് ആകുന്നു കോസ് തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ Z1 എന്നത് KI ബൈ റൂട്ട് 2 p r കോസ് തീറ്റ ബൈ 2 മൈനസ് i സൈൻ തീറ്റ ബൈ 2 ആണ് സ്ട്രെസ് ഫീൽഡ് സമവാക്യം വികസിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ലളിതവൽക്കരണം നടത്തി സ്ട്രെസ് ഫീൽഡ് സമവാക്യത്തിൽ നമ്മൾ Z 1 Z 1 പ്രൈം എന്നിവയെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു ഇവിടെ നമ്മൾ Z 1 Z 1 ബാറിനെക്കുറിച്ച് വിഷമിക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് ഈ എക്സ്പ്രഷൻ ഉണ്ട് അതിനാൽ Z1 ബാർ എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടിവരുമ്പോൾ അത് 2 ബൈ pi മുഴുവൻ പവർ പകുതി K I റൂട്ട് z നോട്ട് ആണ് ഇത് 2 r പവർ പകുതി ബൈ pi ഗുണം K I കോസ് തീറ്റ ബൈ 2 പ്ലസ് i സൈൻ തീറ്റ ബൈ 2 ആണ് ഇപ്പോൾ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് Z 1 Z 1 ബാർ എന്നിവയുടെ പ്രകടനം ഉണ്ട് അതിനാൽ എനിക്ക് ഇത് എക്സ്പ്രഷനിൽ പുനഃസ്ഥാപിക്കുകയും r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് നേടുകയും ചെയ്യാം ഇവിടെ എഴുതിയത് പ്ലെയിൻ സ്ട്രെസ്സ് പ്ലെയിൻ സ്ട്രെയിൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പദപ്രയോഗങ്ങൾ എനിക്കുണ്ട് നിങ്ങളുടെ ധാരണ വളരെ വ്യക്തമാക്കുന്നതിന് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡിനായി നിങ്ങൾ കാണുന്ന പരിഹാരം എന്തായാലും ക്രാക്ക് ടിപ്പ് ഉറവിടമായി റഫർ ചെയ്യുന്നുവെന്ന് ഡയഗ്രം വീണ്ടും ഊന്നിപ്പറയുന്നു അതിനാൽ പ്ലെയിൻ സ്ട്രെസ് കേസിൽ എനിക്ക് u ഡിസ്പ്ലേസ്മെന്റിനുള്ള എക്സ്പ്രഷൻ ഉണ്ട് അത് u x എന്ന് നൽകിയിരിക്കുന്നു v ഡിസ്പ്ലേസ്മെൻറ് അത് u y എന്നും w ഡിസ്പ്ലേസ്മെൻറ് u z എന്നും പ്രതിനിധീകരിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഇത് മറക്കരുത് അവയിൽ ഓരോന്നും നമ്മൾ നോക്കും അതിനാൽ UX KI ബൈ G റൂട്ട് r ബൈ 2 pi കോസ് തീറ്റ ബൈ 2 ഗുണം 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 Uy KI ബൈ G റൂട്ട് r ബൈ 2 pi സൈൻ തീറ്റ ബൈ 2 ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ മൈനസ് 1 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 uz ലേക്ക് വരുമ്പോൾ മൈനസ് 2 ന്യൂ വിഭജനം E ഗുണം KI റൂട്ട് r ബൈ 2 Pi കോസ് തീറ്റ ബൈ 2 ഗുണം B വളരെ ഉയർന്ന സ്ട്രെസ്സ് മൂല്യങ്ങൾ കാരണം ക്രാക്ക് ടിപ്പിന് സമീപം ഒരു ലാറ്ററൽ സങ്കോചം കാണാം വാസ്തവത്തിൽ നമ്മൾ അത് ഒരു ഡിംപിൾ ആയി കണ്ടു ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഡിസ്പ്ലേമെൻറ് തന്നെ ഉള്ള ഒരു പ്രയോഗമാണ് ഒരു സാധാരണ പ്രശ്നത്തിൽ ഡിസ്പ്ലേമെൻറ് വളരെ ചെറുതായിരിക്കും നിങ്ങൾക്ക് ഒരു വിള്ളൽ പ്രശ്നമുള്ളതിനാൽ എനിക്ക് K യുടെ മൂല്യമുണ്ട് ഒപ്പം ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പാരാമീറ്ററുകൾ നോക്കുകയാണെങ്കിൽ ഈ മൂല്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് ഇത് അവഗണിക്കാൻ കഴിയില്ല B എന്നത് മോഡൽ കനം ആണെങ്കിൽ u z ഡിസ്പ്ലേസ്മെൻറ് ലഭിക്കുന്നതിന് നിങ്ങൾ ഇത് B കൊണ്ട് ഗുണിക്കണം അതിനാൽ എനിക്ക് ഈ പ്രയോഗം ലഭിക്കണമെങ്കിൽ എനിക്ക് ഇതിൽ ന്യൂ എന്നതിന് ന്യൂ ബൈ 1 മൈനസ് ന്യൂ എന്ന് പകരം വയ്ക്കാനും ഈ പദപ്രയോഗം നേടാനും കഴിയും ഇത് എഴുതാൻ നിങ്ങളുടെ സമയമെടുക്കുക അതിനാൽ ഇത് പ്ലെയിൻ സ്ട്രെസ്നും പ്ലെയിൻ സ്ട്രെയിനിനും ടിപ്പ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ നൽകുന്നു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിനെ സ്ട്രെസ് ഫീൽഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ശ്രദ്ധേയമായത് നിങ്ങൾക്ക് മുമ്പിൽ അതിനുള്ള പദപ്രയോഗങ്ങളുണ്ട് സ്ട്രെസ് ഫീൽഡിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു നിങ്ങൾ ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് പോകുമ്പോൾ സ്ട്രെസ് വളരെ ഉയർന്ന മൂല്യങ്ങളിലേക്ക് പോകുന്നു പ്രായോഗിക വസ്തുക്കളിൽ ഇത് വളരെ ഉയരത്തിൽ പോകാൻ കഴിയില്ല അത് യിൽഡ് സ്ട്രെങ്ത് ലേക്കോ അല്ലെങ്കിൽ വർക്ക് ഹാർഡനിങ് ചെയ്യുന്ന പ്രതിഭാസങ്ങളിലേക്കോ എത്തിച്ചേരണം അതിനാൽ സ്ട്രെസ് മൂല്യങ്ങൾ ഇപ്പോഴും പരിമിതമായിരിക്കും എന്നാൽ വളരെ ഉയർന്നതാണ് നിങ്ങൾ ഒരു ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് നോക്കുമ്പോൾ ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് ഉയർന്ന ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടാകുമോ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ സിംഗുലാരിറ്റി അറ്റാച്ചുചെയ്തിട്ടില്ല R 0 ലേക്ക് പോകുമ്പോൾ ഈ ഡിസ്പ്ലേമെൻറ് ഘടകങ്ങൾക്ക് എന്ത് സംഭവിക്കും ഡിസ്പ്ലേമെൻറ് ഘടകങ്ങളും 0 ലേക്ക് പോകുന്നു നിങ്ങൾ ശരിയായ ദിശയിലാണെന്ന് ഉറപ്പാക്കാനുള്ള മറ്റൊരു പരിശോധനയാണിത് നിങ്ങളുടെ ഗണിതശാസ്ത്ര രീതി സ്ഥിരമാണ് ഒരു സ്ട്രെസ് ഫീൽഡ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് സിംഗുലർ പരിഹാരം ലഭിച്ചു ഡിസ്പ്ലേമെൻറ് ന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ബൌണ്ടഡ് പരിഹാരം ലഭിച്ചു പുസ്തകങ്ങൾ ഈ പദപ്രയോഗങ്ങൾ വിവിധ രൂപങ്ങളിൽ നൽകുന്നുവെന്ന് നിങ്ങൾക്കറിയാം സാധ്യമായ എല്ലാ വഴികളിലും നിങ്ങൾക്ക് പദപ്രയോഗങ്ങൾ ലഭിക്കുന്നത് അഭികാമ്യമാണെന്ന് നിങ്ങൾക്കറിയാം പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ എന്നിവയ്ക്കായി സംയോജിപ്പിച്ച പദപ്രയോഗങ്ങളും പുസ്തകങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് അവ എഴുതാം ux നെ KI ബൈ 2 G റൂട്ട് r ബൈ ഐ 2 pi cos theta ബൈ 2 ഗുണം K ഇത് K അല്ല ഇത് കാപ്പ ആണെന്ന് മനസ്സിലാക്കണം കാപ്പ മൈനസ് 1 പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ് അപ്പോൾ uy നെ KI ബൈ 2 G റൂട്ട് r ബൈ 2 pi സൈൻ theta ബൈ 2 ഗുണം കാപ്പ പ്ലസ് 1മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ് കാപ്പ എന്നത് പ്ലെയിൻ സ്ട്രെസ് ന് 3 മൈനസ് ന്യൂ ബൈ 1 പ്ലസ് ന്യൂ ആണ് പ്ലെയിൻ സ്ട്രെയിനിന് ഇത് 3 മൈനസ് 4 ന്യൂ ആയി നൽകുകയും G ഷിയർ മോഡുലസ് ആയി നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ നോക്കുമ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ കണ്ട അത്തരം പദപ്രയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് പേജുകൾ സംരക്ഷിക്കുന്നതിന് അടിസ്ഥാനപരമായി ഡിസ്പ്ലേമെൻറ് ഫീൽഡിനെ സൌകര്യപ്രദമായ രൂപത്തിൽ പ്രതിനിധീകരിക്കുക ആണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് അതാണ് എന്നാൽ വ്യത്യസ്ത പുസ്തകങ്ങളിൽ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമായി നൽകിയിരിക്കുന്നു അതിനാൽ അവയെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയെക്കുറിച്ച് ഇവിടെ മനസിലാക്കുക u z നൽകിയിട്ടില്ല അതിനാൽ പ്ലെയിൻ സ്ട്രെസ് ക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കും u z ഉണ്ട് ഏതെങ്കിലും ടൈപ്പോഗ്രാഫിക്കൽ പിശക് ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് ഈ പദപ്രയോഗങ്ങൾ നിരവധി തവണ പരിശോധിച്ചുറപ്പിച്ചതായി നിങ്ങൾക്കറിയാം എന്നിരുന്നാലും ഈ സമവാക്യങ്ങളിലൊന്നിലെ ഏതെങ്കിലും ക്ലറിക്കൽ പിശക് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പരീക്ഷണ വീക്ഷണകോണിൽ നിന്ന് ഏതൊക്കെ പദപ്രയോഗങ്ങളാണ് പ്രധാനമെന്ന് നിങ്ങൾ ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട് അത് വ്യത്യസ്തമായ ഒരു പ്രശ്നമാണ് കാരണം നിങ്ങൾ ഓർമ്മിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ എന്താണ് പ്രധാനമെന്നും പ്രധാനപ്പെട്ടതല്ലാത്തത് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടിവരും അത് ഒരു ധാരണയാണ് മുമ്പത്തെ ക്ലാസുകളിൽ ഞാൻ പരാമർശിച്ച ഒരു കാര്യം കാണുക വിള്ളൽ തുറക്കുമ്പോൾ അത് ഒരു എലിപ്സ് പോലെ തുറക്കുന്നു ഇതാണ് ഞാൻ പരാമർശിക്കുന്നത് ഞാൻ ഇതുപോലൊരു പ്രസ്താവന നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഡിസ്പ്ലേമെൻറ് ഫീൽഡ് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കത് വിലയിരുത്തുകയും വ്യക്തത നേടുകയും ചെയ്യേണ്ടിവരും നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുക വിള്ളൽ ഒരു എലിപ്സ് പോലെ തുറക്കുന്നു അതിനാൽ നാം അത് നോക്കണം നമുക്ക് ഇതിനകം തന്നെ Z 1 എന്ന പദപ്രയോഗമുണ്ട് ഞാൻ ക്രാക്ക് സെൻറർ ഉത്ഭവമായും ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ Z1 സിഗ്മ z ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്നതിനു തുല്യമാണ് Z1 ബാറിന് എന്ത് സംഭവിക്കും ലളിതമായ ഇന്റഗ്രേഷൻ എനിക്ക് ഇത് സിഗ്മ z ഗുണം d z ബൈ z റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്നതായി ലഭിക്കും എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ് ഇത് y ഡിസ്പ്ലേസ്മെൻറ് ആണ് അതിനാൽ ഞാൻ u y എന്ന പദപ്രയോഗം കണ്ടുപിടിക്കണം അത് 1 ബൈ 2 G ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ Z 1 ബാർ മൈനസ് y ഗുണം Z 1 ന്റെ റിയൽ ഭാഗം വാസ്തവത്തിൽ y 0 ന് തുല്യമാകുമ്പോൾ എന്ന കേസിന്റെ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്താൻ പോകുന്നു കാരണം അതാണ് വിള്ളൽ നിർവചിക്കുന്നത് അതിനാൽ y 0 എന്നതിന് തുല്യം ആകുമ്പോൾ അതിൻറെ ഡിസ്പ്ലേസ്മെൻറ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇത് കുറയുന്നു കാരണം നിങ്ങൾ y 0 എന്നതിന് തുല്യം ആകുന്നതായി പുനസ്ഥാപിക്കുബോൾ ഈ പദം മാറുന്നു അതിനാൽ പ്രധാനമായും നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് Z1 ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം എന്താണ് Z1 ബാർ ഈ രീതിയിൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പോയി ഈ സമവാക്യം ഇന്റഗ്രേഷൻ ചെയ്തു നിങ്ങൾക്ക് ലഭിക്കുന്ന അന്തിമ പദപ്രയോഗം എന്താണെന്ന് കണ്ടെത്തണം വാസ്തവത്തിൽ അടുത്ത രണ്ട് മൂന്ന് ക്ലാസുകൾക്കായി നിങ്ങൾ പോയി ഇന്റഗ്രലുകളുടെ പട്ടിക റഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ സ്ക്വയർ റൂട്ട് ഉപയോഗിച്ച് ഫംഗ്ഷനുകൾ ഉള്ളപ്പോൾനമുക്ക് വേരിയബിളിന് പകരമാവുകയും അത് ചെയ്യുകയും ചെയ്യും ആ ഘട്ടങ്ങളും നോക്കുക അതിനാൽ ഇന്റഗ്രലുകളുടെ പട്ടിക നോക്കാൻ നിങ്ങളുടെ സമയം കണ്ടെത്തുക അതിനാൽ ക്ലാസിൽ ഇന്റഗ്രേഷൻ നടത്താനും എന്റേതുമായി നിങ്ങളുടെ പരിഹാരം പരിശോധിക്കാനും താൽപ്പര്യമുള്ള പ്രസക്തമായ സമവാക്യങ്ങളിൽ എത്തിച്ചേരാനും ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തുടക്കത്തിൽ നമ്മൾ വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫീൽഡിൽ ഇർവിന്റെ പരിഷ്ക്കരണം നോക്കി അദ്ദേഹത്തിന്റെ പരിഷ്ക്കരണം വളരെ ലളിതമാണെന്ന് ഒരു യഥാർത്ഥ പരീക്ഷണത്തിൽ കാണുന്ന ഫ്രിഞ്ച്കളെ മാതൃകയാക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടു അതിനാൽ ഒരു പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ KI സിഗ്മ നോട്ട് x എന്നിവ വിലയിരുത്തും നിങ്ങളുടെ എല്ലാ ഫ്രാക്ചർ കണക്കുകൂട്ടലിനും നിങ്ങൾ K I ന്റെ മൂല്യം എടുക്കും ഏകീകൃത ലോഡ് സാഹചര്യത്തിന് വെസ്റ്റർഗാർഡ് പരിഹാരം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു ചർച്ച നടന്നിരുന്നുവെന്നും ഞാൻ പരാമർശിക്കുന്നു ഒരു ബദൽ എന്ന നിലയിൽ ഇർവിന്റെ പരിഷ്ക്കരണങ്ങളെക്കുറിച്ച് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയും എന്ന് ആളുകൾ പറഞ്ഞു എന്നിരുന്നാലും എല്ലാ ബോഡിയും പരിമിതമാണെന്നതിനാൽ പിന്നീടുള്ള ക്ലാസ്സിൽ ഫൈനൈറ്റ് ബോഡി പ്രശ്നത്തിന്ള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പരിശോധിക്കും ഒരു ബയാക്സിയൽ ലോഡിംഗ് ഉള്ള അനന്തമായ ബോഡിക്ക് KI എന്നത് സിഗ്മ റൂട്ട് പൈ a ന് തുല്യമായി മാറി അടിസ്ഥാന ഘടന ഇപ്പോഴും അങ്ങനെ തന്നെ തുടരും പക്ഷേ നമുക്ക് കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും മൂർച്ചയില്ലാത്ത ക്രാക്ക് ടിപ്പിന്റെ കാര്യവും നമ്മൾ പരിശോധിച്ചു സ്ട്രെസ് ഫീൽഡ് എങ്ങനെ മാറുന്നു ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് സിഗ്മ x ഉണ്ടാകരുത് അത് പൂജ്യമായിരിക്കണം നിങ്ങൾക്ക് സിഗ്മ y യുടെ ഒരു പരിമിത മൂല്യവും ഉണ്ടാകും ക്രിയേജറും പാരീസും ആണ് ഇത് ചെയ്തത് പിന്നീട് നമ്മൾ ഡിസ്പ്ലേമെൻറ് ഫീൽഡ് നോക്കുന്നതിലേക്ക് നീങ്ങി സ്ട്രെസ് ഫംഗ്ഷന്റെ കാര്യത്തിൽ നമ്മൾ അത് നിലനിർത്തി അതിനാൽ നമുക്ക് ക്രാക്ക് സെന്റർ ഉറവിടം ആയോ അല്ലെങ്കിൽ ക്രാക്ക് ടിപ്പ് ഉറവിടമായോ ലഭിക്കും ക്രാക്ക് ടിപ്പ് ഉറവിടം ആയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് ലഭിച്ചു പ്ലെയിൻ സ്ട്രെസ് കേസ് പ്ലെയിൻ സ്ട്രെയിൻ കേസ് എന്നിവയ്ക്കായി നമ്മൾ ഇത് പരിശോധിച്ചു ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എങ്ങനെ സംയോജിപ്പിച്ച് ഒരു പദപ്രയോഗമായി കാണാമെന്നും നമ്മൾ പരിശോധിച്ചു പ്ലെയിൻ സ്ട്രെസ്ന്റെ കാര്യത്തിൽ ഡിസ്പ്ലേസ്മെൻറ് u z ഘടകത്തിന്റെ പങ്ക് നമ്മൾ ഊന്നി പറഞ്ഞു